ഇതുവരെ കോമൺ സോഴ്സ് ആംപ്ലിഫയർ nMOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചു നമ്മൾ വിശദമായി ചർച്ചചെയ്തു ഒരു ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യുന്ന വിവിധ സ്കീമുകൾ ഉൾപ്പെടെ നമ്മൾ കണ്ടു നേരത്തെ കോഴ്സിൽ nMOS ട്രാൻസിസ്റ്റർ ഒരു ഉദാഹരണം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു ഇന്ന് MOS ട്രാൻസിസ്റ്റർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണമാണിത് പക്ഷേ മറ്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആംപ്ലിഫയറുകൾ രൂപകൽപ്പന ചെയ്യുന്നതിന് ഞാൻ വിവരിച്ച അതേ തത്ത്വങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും ഈ പാഠത്തിൽ ഞങ്ങൾ എന്തുചെയ്യും എന്നത് മുൻപ് കണ്ടതും ഇനി കാണാനിരിക്കുന്നതുമായ മറ്റ് ഉപകരണങ്ങളിലേക്ക് നോക്കുക എന്നതാണ് കൂടാതെ നിങ്ങൾ പ്രധാനമായും ഉപകരണ ക്യാരക്ടറിസ്റ്റിക്സ്ൾ ആസൂത്രണം ചെയ്യുമെന്നും അവിടെ നിന്ന് ആംപ്ലിഫയറിനായി ശരിയായ ഓപ്പറേറ്റിംഗ് പോയിന്റ് തിരഞ്ഞെടുക്കുമെന്നും കാണിച്ചു ഭാവിയിൽ വരുന്ന ഏതൊരു ഉപകരണവും നിങ്ങൾക്ക് സ്വഭാവക്യാരക്ടറിസ്റ്റിക്സ്ൾ നോക്കാനും ഓപ്പറേറ്റിംഗ് പോയിന്റ് ശരിയായി സജ്ജീകരിക്കാനും ഒരു ആംപ്ലിഫയറായി ഉപയോഗിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും പ്രവർത്തനത്തിനായി ഉപയോഗിക്കാനും നിങ്ങൾക്ക് കഴിയണം ഇപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ നിങ്ങൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞുനോക്കിയാൽ വാക്വം ട്യൂബുകൾ എന്നറിയപ്പെടുന്ന ഈ ഉപകരണങ്ങൾ നിലവിൽ വന്നു അവ വളരെ പ്രചാരത്തിലായി അവ വിപുലമായ ആപ്ലിക്കേഷനുകളിൽ സിഗ്നലുകൾ വർദ്ധിപ്പിക്കാൻ ആദ്യമായി ഉപയോഗിച്ചവയാണ് അത്തരം ആംപ്ലിഫയർ ഉപകരണങ്ങളിൽ ആദ്യത്തേത് ട്രയോഡ് എന്നറിയപ്പെടുന്നു ട്രയോഡിന് ഇതുപോലുള്ള ഒരു ചിഹ്നമുണ്ടായിരുന്നു MOS ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിൻ ഗേറ്റ് സോഴ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട മൂന്ന് ടെർമിനലുകളാണ് ഇവ ഡ്രെയിൻ പ്ലേറ്റ് അല്ലെങ്കിൽ ആനോഡ് എന്നറിയപ്പെടുന്നതിനോട് യോജിക്കുന്നു സോഴ്സ് കാഥോഡ് എന്നറിയപ്പെടുന്നതിനോട് യോജിക്കുന്നു ഗേറ്റ് ഗ്രിഡ് എന്നറിയപ്പെടുന്നതിന് സമാനമാണ് വാക്വം ട്യൂബുകൾ ശരിയായി പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്കും ഒരു ഹീറ്റർ ഉണ്ടായിരിക്കണം ഇവ പ്രവർത്തിക്കുന്നത് കാഥോഡ് ചൂടാക്കുന്നതിലൂടെ ഇലക്ട്രോണുകളെ പുറന്തള്ളുകയും അവ ആനോഡ് പിടിച്ചെടുക്കുകയും ചെയ്യുന്നു പിടിച്ചെടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ആനോഡ് ഗ്രിഡിലെ വോൾട്ടേജാണ് നിയന്ത്രിക്കുന്നത് അതിനാൽ MOS ട്രാൻസിസ്റ്ററിന്റെ ടെർമിനലുകളുമായി വളരെ അടുത്ത സമാനത ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാണ് VGS ആനോഡും കാഥോഡും തമ്മിലുള്ള വോൾട്ടേജ് VDS ആയിരിക്കും തീർച്ചയായും ഒരേയൊരു വ്യത്യാസം നിങ്ങൾ പ്രയോഗിക്കുന്ന വോൾട്ടേജുകളുടെ സമ്പൂർണ്ണ മൂല്യത്തിലാണ് കാഥോഡ് വോൾട്ടേജിലേക്കുള്ള VGS ഗ്രിഡ് എല്ലായ്പ്പോഴും പൂജ്യത്തേക്കാൾ കുറവായിരിക്കും ഇത് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിന് തുല്യമാണ് ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് അല്ലെങ്കിൽ പ്ലേറ്റ് ടു കാഥോഡ് വോൾട്ടേജ് നൂറുകണക്കിന് വോൾട്ടുകളിൽ ആയിരിക്കും ഇപ്പോൾ MOS ട്രാൻസിസ്റ്റർ പോലെ ഗ്രിഡ് കറന്റ് വളരെ ചെറുതായിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ കാണിച്ചിരിക്കുന്ന സവിശേഷതയാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് പ്രത്യേകിച്ചും അവ ID vs VDS ആണ് അടിസ്ഥാനപരമായി ട്രയോഡിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് Iout vs Vout എന്ന് ഞാൻ ലേബൽ ചെയ്തിട്ടുണ്ട് കൂടാതെ ഗ്രിഡ് വോൾട്ടേജിന്റെ വ്യത്യസ്ത മൂല്യങ്ങൾ അല്ലെങ്കിൽ VGS ന്റെ വ്യത്യസ്ത മൂല്യങ്ങൾക്കുള്ള ID vs VDS ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് ഇതിനെ ചിന്തിക്കാം നിങ്ങൾക്ക് ഈ സീറോ വോൾട്ട് മൈനസ് ഒന്ന് മൈനസ് രണ്ട് എന്നിങ്ങനെ കാണാൻ കഴിയും അതിനാൽ ഒരു MOS ട്രാൻസിസ്റ്ററിലെന്നപോലെ VGS കൂടുന്നതിനനുസരിച്ച് അത് ഇവിടെ വർദ്ധിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് കുറയുകയും നെഗറ്റീവ് ആകുകയും ചെയ്യുന്നു കറന്റ് വർദ്ധിക്കുന്നു ഇപ്പോൾ MOS ട്രാൻസിസ്റ്ററും ഇതും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ക്യാരക്ടറിസ്റ്റിക്സ് അടിസ്ഥാനപരമായി ഇവിടെ നൽകിയിട്ടുള്ള ഈ കർവുകൾ ആണ് നിങ്ങൾ കാണുന്ന പ്രധാന വ്യത്യാസം ഒരു MOS ട്രാൻസിസ്റ്ററിൽ VDS ന്റെ ഒരു നിശ്ചിത മൂല്യത്തിനപ്പുറത്ത് ക്യാരക്ടറിസ്റ്റിക്സ് നേർരേഖ ആയിരുന്നു അവിടെയാണ് അതാണ് ഒരു ആംപ്ലിഫയറിനുള്ള പ്രവർത്തന മേഖല അതേസമയം ഇതിൽ ഒരു നേർരേഖ കാണുന്നില്ല കറന്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ഇത് MOS ട്രാൻസിസ്റ്ററിന്റെ ഈ മേഖലയെ ക്യാരക്ടറിസ്റ്റിക്സ് പോലെ കാണപ്പെടുന്നു ചരിവ് നിസാരമല്ല ചരിവ് വളരെ ഉയർന്നതാണ് വാസ്തവത്തിൽ ഈ മേഖലയെ ട്രയോഡ് മേഖല എന്ന് വിളിക്കുന്നു കാരണം ഈ മേഖലയിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ട്രയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സുമായി സാമ്യമുള്ളതാണ് അതിനാൽ ഇത് അനുയോജ്യമായ ആംപ്ലിഫയർ അല്ല ഇതിന് ആവശ്യമുള്ള എല്ലാ ആവശ്യമുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ല പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ആംപ്ലിഫയറുകൾ നിർമ്മിക്കാൻ കഴിയും മാത്രമല്ല ഇത് ഉപയോഗിക്കുകയും ചെയ്തു ഇപ്പോൾ ഉപകരണം എങ്ങനെ മികച്ചതാക്കാം എന്നതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ പിന്നീട് ജനങ്ങൾക്ക് ലഭിച്ചു അതിനാൽ നമ്മൾക്ക് ട്രയോഡിന്റെ പ്ലേറ്റ് ഗ്രിഡ് കാഥോഡ് എന്നീ മൂന്ന് ടെർമിനലുകൾ ഉണ്ട് വിവിധ സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ ഇവിടെ ചർച്ച ചെയ്യില്ല അവർക്ക് മറ്റൊരു ടെർമിനൽ ചേർത്ത് മികച്ചതാക്കാൻ കഴിയുമെന്ന് അവർ കണ്ടെത്തി ഈ ടെർമിനലിന് പക്ഷപാതപരമായി പെരുമാറേണ്ടതുണ്ട് അതായത് വോൾട്ടേജ് ഡ്രെയിനിന് തുല്യമോ അതിലും ഉയർന്നതോ ആണ് ആ ഉപകരണത്തിന് ടെട്രോഡ് എന്നാണ് അറിയപ്പെടുന്നത് അതിൽ നാല് ഇലക്ട്രോഡുകൾ ഉണ്ട് വേറെ ചിലർ ഇത് ഇതിലും മികച്ചതായിരിക്കുമെന്ന് കണ്ടെത്തി നിങ്ങൾ ഇവിടെ അഞ്ചാമത്തേത് ചേർത്താൽ ഇത് നെഗറ്റീവ് വോൾട്ടേജുമായി ബയസ് ചെയ്തിരിക്കുന്നു ഇത് മിക്ക സർക്യൂട്ടുകളിലും കറന്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അത്തരമൊരു ഉപകരണം പെന്റോഡ് എന്നറിയപ്പെടുന്നു ഇവിടെ ഞാൻ Iout vs Vout കാണിക്കുന്നു അടിസ്ഥാനപരമായി ഒരു പെന്റോഡിന്റെ ID vs VDS ക്യാരക്ടറിസ്റ്റിക്സ് ട്രയോഡ് പോലെ ഗ്രിഡ് അല്ലെങ്കിൽ ഗേറ്റ് വോൾട്ടേജ് നെഗറ്റീവ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ ഗേറ്റ് വോൾട്ടേജ് പൂജ്യമാണ് ഇവിടെ ഇത് മൈനസ് നാല് മൈനസ് ആറ് എന്നിങ്ങനെയാണ് അതിനാൽ ഗേറ്റ് വോൾട്ടേജ് കൂടുതൽ പോസിറ്റീവ് ആകുമ്പോൾ കറന്റ് വർദ്ധിക്കുന്നു ക്യാരക്ടറിസ്റ്റിക്സിൻറെ ഈ ഭാഗം ഇത് MOSFET നോട് സാമ്യമുള്ളതാണെന്നും നിങ്ങൾക്ക് കാണാം ഒരു പരന്ന പ്രദേശം ഉണ്ട് അതിനർത്ഥം ഒരു പെന്റോഡ് ഒരു ട്രയോഡിനേക്കാൾ മികച്ച ആംപ്ലിഫയർ ഉപകരണമാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഓർക്കുക ഒരു ആംപ്ലിഫയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്ൾ എന്തായിരിക്കണമെന്ന് നമുക്ക് നോക്കാം ഒപ്പം y22 വളരെ ചെറുതും പൂജ്യത്തോട് അടുത്തുള്ളതും ആയിരിക്കണമെന്ന് നമ്മൾ കണ്ടെത്തി ഒരു പെന്റോഡിന്റെ y22 ഏകദേശo ഇതിനോടടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും അതേസമയം ഒരു ട്രയോഡിന്റേത് അങ്ങനെയല്ല അതിനാൽ MOS ട്രാൻസിസ്റ്ററും ഒരു പെന്റോഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാധാരണയായി ഇന്ന് നിങ്ങൾ MOS ട്രാൻസിസ്റ്ററുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായും ഒരു വലിയ വൈവിധ്യമുണ്ട് എന്നാൽ മിക്ക ആംപ്ലിഫയർ ഉപകരണങ്ങൾക്കും x ആക്സിസ് VDS ചെറിയ വോൾട്ട് ആയിരിക്കും അതേസമയം അഞ്ഞൂറ് വോൾട്ടുകളിലേക്ക് ഇത് പോകുന്നുണ്ടെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ തത്ത്വങ്ങൾ ഒന്നുതന്നെയാണ് നിങ്ങൾ ഇവിടെ ചില ഓപ്പറേറ്റിംഗ് പോയിന്റ് തിരഞ്ഞെടുക്കുകയും അവിടെ നിങ്ങളുടെ ആംപ്ലിഫയർ ബയസ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഉയർന്ന നേട്ടം ലഭിക്കും തീർച്ചയായും ഈ സർക്യൂട്ടുകൾ നിർമ്മിക്കുന്നതിൽ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധാലുവായിരിക്കണം കാരണം അഞ്ച് വോൾട്ടുകൾക്ക് പകരം നിങ്ങൾക്ക് അഞ്ഞൂറ് വോൾട്ട് ഉണ്ട് നിങ്ങൾക്ക് സർക്യൂട്ടിൽ എല്ലായിടത്തും ഒരു ചിത്രം ഒട്ടിക്കാൻ കഴിയില്ല കൂടാതെ ഒരു വൈദ്യുത ഷോക്ക് ഏൽക്കാനും പാടില്ല എന്നാൽ പെന്റോഡ് ഒരു MOS ട്രാൻസിസ്റ്ററിനടുത്താണ് ഇത് വളരെ പ്രചാരമുള്ള ആംപ്ലിഫയർ ഉപകരണമായിരുന്നു ഇപ്പോൾ ഞാൻ പല ഡിസൈനുകളിലും ഉപയോഗിച്ച ഒരു യഥാർത്ഥ MOS ട്രാൻസിസ്റ്ററിന്റെ സിമുലേറ്റഡ് ID vs VDS ക്യാരക്ടറിസ്റ്റിക്സ്ൾ ഇവിടെ കാണിക്കുന്നു ഞങ്ങൾ ഉപയോഗിച്ചതിനെ ഇത് പിന്തുടരുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് കൃത്യമായി സ്ക്വയർ ലോ ആയിരിക്കില്ല അതിനാൽ മറ്റെല്ലാ കാര്യങ്ങളെയും പോലെ ഏകദേശ മോഡലുകളും ഉണ്ടാകും ഇത് ഏത് കണക്കുകൂട്ടലും നടത്താൻ നമ്മളെ സഹായിക്കുന്നു ഏകദേശ മോഡലിൽ നിന്നുള്ള എല്ലാത്തരം വ്യതിയാനങ്ങളും കാണിക്കുന്ന കൂടുതൽ വിശദമായ മോഡലുകൾ ഉണ്ടാകും ഏകദേശ മോഡൽ സ്ക്വയർ ലോ ആണ് ഇത് കൃത്യമായി സ്ക്വയർ ലോ ആയിരിക്കില്ല എന്നാൽ നിങ്ങൾക്ക് ഗുണപരമായി സാമ്യം ട്രയോഡ് മേഖല സാച്ചുറേഷൻ മേഖല VGS മായി കറന്റ് വർദ്ധനവ് എന്നിവ കാണാൻ കഴിയും ഇത് ഇവിടെ ലേബൽ ചെയ്തിട്ടില്ല എന്നാൽ ചില ചെറിയ ഘട്ടങ്ങളിലൂടെ VGS പൂജ്യം മുതൽ 1 5 വോൾട്ട് വരെ പടിപടിയായി ഉയർത്തിയിരിക്കുന്നു ഇപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു ഉപകരണം ഉണ്ട് അത് ഒരു NPN ട്രാൻസിസ്റ്റർ എന്നറിയപ്പെടുന്നു ഈ കോഴ്സിൽ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും വാക്വം ട്യൂബുകൾക്ക് ശേഷം വന്ന അർദ്ധചാലക ട്രാൻസിസ്റ്ററിന്റെ തരം ഇതാണ് ഇത് വാക്വം ട്യൂബുകൾക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ പല ആപ്ലിക്കേഷനുകൾക്കുമായി ഇത് MOS ട്രാൻസിസ്റ്ററിന് പകരം ഉപയോഗിക്കാവുന്നതാണ് ഇവ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും MOS കൂടുതൽ ജനപ്രിയമാണ് ഇതിന് മൂന്ന് ടെർമിനലുകൾ കളക്ടർ ബേസ് എമിറ്റർ എന്നിവയുണ്ട് ഇത് യഥാക്രമം ഡ്രെയിൻ ഗേറ്റ് സോഴ്സ് എന്നിവയുമായി യോജിക്കുന്നു ക്യാരക്ടറിസ്റ്റിക്സുകൾ സമാനമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ I vs V വളരെ പരന്നതാണ് അതായത് ആമ്പ്ളിഫയർ ഇവിടെയാണ് ബയാസ് ചെയ്യുന്നത് ട്രയോഡിന് സമാനമായ മേഖല വളരെ ചെറുതാണെന്നും നിങ്ങൾക്ക് കാണാം ഒരു MOS ട്രാൻസിസ്റ്ററിൽ ട്രയോഡ് മേഖല തികച്ചും ഉപയോഗപ്രദമാണ് ഇതുപോലുള്ള ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ ഇത് ഒട്ടും ഉപയോഗപ്രദമല്ലെന്ന് ഇത് മാറുന്നു ഇത് വാണിജ്യപരമായി ലഭ്യമായ MOS ട്രാൻസിസ്റ്ററും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്ളും കാണിക്കുന്നു ഇതാണ് ID vs VDS നമ്മൾ വിവരിച്ച ഇനിപ്പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഇതെന്ന് നമ്മൾക്ക് കാണാൻ കഴിയും ഇത് തികച്ചും സ്ക്വയർ ലോ ആയിരിക്കില്ല കാരണം ഗേറ്റ് വോൾട്ടേജിൽ തുല്യമായ വർദ്ധനവിന് ഡ്രെയിൻ കറന്റിലെ വർദ്ധനവ് കുത്തനെ വർദ്ധിക്കുന്നില്ല പക്ഷേ അത് പിന്തുടരുന്നു ഒരേ തരത്തിലുള്ള ട്രാൻസിസ്റ്ററിനുള്ള Iout vs Vin അതായത് ID vs VGS ഇത് കാണിക്കുന്നു ഇത് ഈ സ്ക്വയർ ലോ ക്യാരക്ടറിസ്റ്റിക്സ് പിന്തുടരുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ ഇവിടെ കാണിച്ചിരിക്കുന്നതും വ്യത്യസ്ത താപനിലയിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവയെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് താപനിലയോടൊപ്പം മാറുന്നുവെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കൂടാതെ ഇവിടെ ത്രെഷോൾഡ് വോൾട്ടേജും കറന്റ് ഘടകവും താപനിലയോടൊപ്പം മാറുന്നത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ഫ്യൂച്ചറിസ്റ്റ് ഉപകരണങ്ങളിലേക്ക് പോകാം ഇവ ഇപ്പോഴും ലാബ് ഘട്ടത്തിലാണ് ഈ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്ന ഒരു സംയോജിത സർക്യൂട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല പക്ഷേ ട്രാൻസിസ്റ്റർ നിർമ്മിക്കുന്നതിന് എല്ലാത്തരം മറ്റ് വസ്തുക്കളും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു അവയിൽ ചിലത് ട്രാൻസിസ്റ്ററിനേക്കാൾ മികച്ചതായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അതിനാൽ ഇത് ചില ട്രാൻസിസ്റ്ററാണ് അതിനായി ഞാൻ MOS ചിഹ്നം ഉപയോഗിക്കുന്നത് തുടരും ID vs VDS സ്വഭാവക്യാരക്ടറിസ്റ്റിക്സ്ളാണ് ഞാൻ വീണ്ടും കാണിച്ചത് ഗ്രാഫീൻ എന്ന ഈ മെറ്റീരിയലിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം ഇത് എല്ലാത്തരം കാരണങ്ങളാലും വാർത്തകളിൽ പ്രത്യക്ഷപ്പെടുന്നു ഇവിടെ ചിലർ ഗ്രാഫീൻ ഉപയോഗിച്ച് ട്രാൻസിസ്റ്റർ നിർമ്മിക്കാൻ ശ്രമിച്ചു കൂടാതെ ചുവന്ന കർവ് പോലെ പരന്നതായി മാറുന്ന ക്യാരക്ടറിസ്റ്റിക്സുകളുടെ ചില ഭാഗങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മാത്രമല്ല ഈ തവിട്ടുനിറത്തിലുള്ളവ തികച്ചും പരന്നതായി മാറുന്നില്ല അതിനാൽ ഉപകരണങ്ങൾ വ്യക്തമായും രൂപകൽപ്പന ചെയ്യുന്നതിന്റെ ലക്ഷ്യം ഈ പരന്ന ഭാഗങ്ങൾ നേടുന്നതിനാണ് അതിനാൽ നിങ്ങൾക്ക് നല്ല ആംപ്ലിഫയറുകൾ നിർമ്മിക്കാൻ കഴിയും നിങ്ങൾക്ക് ഈ പരന്ന ഭാഗം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ഒരു ആംപ്ലിഫയറായി ഉപയോഗിക്കാൻ കഴിയും അത് ഒരു മോശം ആംപ്ലിഫയറാകും നിങ്ങൾക്ക് കുറഞ്ഞ നേട്ടം ലഭിക്കും എന്നാൽ ട്രയോഡ് പോലെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയും കറന്റും വോൾട്ടേജും ഒരു MOS ട്രാൻസിസ്റ്ററിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സമാനമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വെബിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന ചിത്രമാണിത് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി ഓർഗാനിക് ട്രാൻസിസ്റ്ററുകൾക്കായി തിരയാം എല്ലാ വിശദാംശങ്ങളെയും കുറിച്ച് വിഷമിക്കേണ്ട ഇവിടെ നിരവധി നിരവധി കർവുകൾ ഉണ്ട് എന്നാൽ ഇതിന് ഇതുപോലുള്ള ക്യാരക്ടറിസ്റ്റിക്സ്ൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് പൂജ്യത്തിൽ നിന്ന് ആരംഭിച്ച് മുകളിലേക്ക് പോകുന്നത് കാണാം തുടർന്ന് ഇത് ഒരുതരം പരന്നതായിത്തീരുന്നു ഇവിടെ അത് വിചിത്രമായ രീതിയിൽ മുകളിലേക്ക് പോകുന്നു പക്ഷേ അത് വീണ്ടും പരന്നതായി മാറുന്നു അതിനാൽ നിങ്ങൾ നിർമ്മിക്കുന്ന ഏതൊരു ട്രാൻസിസ്റ്ററിലും ലക്ഷ്യമിടുന്ന ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സുകൾ ഉണ്ടായിരിക്കണം നിങ്ങൾക്കത് ഒരു ആംപ്ലിഫയറായി ഉപയോഗിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലാറ്റ് മേഖലയിൽ ബയസ് ചെയ്യണം TFT ട്രാൻസിസ്റ്റർ എന്നറിയപ്പെടുന്ന മറ്റൊരു തരം ട്രാൻസിസ്റ്റർ ഇവിടെയുണ്ട് ഇത് വെബിൽ നിന്ന് ലഭിക്കും VDS നൊപ്പം I ന്റെ കാര്യമായ വ്യത്യാസമുള്ള ഈ പ്രദേശങ്ങളും കർവ് പരന്നതായി മാറുന്ന പ്രദേശങ്ങളും നിങ്ങൾക്ക് കാണാം എല്ലായിടത്തും ഞാൻ കാണിക്കുന്നത് ID vs VDS ക്യാരക്ടറിസ്റ്റിക്സ്ളാണ് ഇവ നിർണായകമാണെന്ന് നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും നിങ്ങൾക്ക് അതിൽ പരന്ന പ്രദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല ആംപ്ലിഫയർ നിർമ്മിക്കാൻ കഴിയും ID vs VGS ID vs VDS എന്നീ ക്യാരക്ടറിസ്റ്റിക്സുകളുടെ രണ്ട് ഭാഗങ്ങളും നിങ്ങൾ നോക്കേണ്ടതുണ്ട് ID vs VGS ന് വളരെ ഉയർന്ന ചരിവ് ഉണ്ടായിരിക്കണം കൂടാതെ ID vs VDS കഴിയുന്നത്ര പരന്നതായിരിക്കണം വെറുതെ ഒരു വാക്വം ട്യൂബ് ആംപ്ലിഫയറിന്റെ ഒരു ഉദാഹരണo ഞാൻ നിങ്ങളെ കാണിക്കുന്നു അത് ഒരു പെന്റോഡ് ഉപയോഗിക്കുന്നു ഇതും ഇലക്ട്രോഡും അവഗണിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് സപ്ലൈ വോൾട്ടേജുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ഇവ രണ്ടും ഒഴിവാക്കുകയാണെങ്കിൽ ശേഷിക്കുന്ന മൂന്ന് ടെർമിനലുകൾ ഒരു MOS ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിൻ ഗേറ്റ് സോഴ്സ് എന്നിവയുമായി യോജിക്കുന്നു ഇത് ചില സർക്യൂട്ട് ഫോം EDN ൽ നിന്നാണ് എടുത്തത് കൂടാതെ അത് ക്വിസന്റ് കറന്റ് അഞ്ച് മില്ലി ആംപിയറുകളാണെന്നും പറയുന്നു ഇതിനർത്ഥം ഓപ്പറേറ്റിംഗ് പോയിന്റിൽ അഞ്ച് മില്ലിയാമ്പിയറുകൾ ഇവിടെ ഡ്രെയിനിലേക്കോ പ്ലേറ്റിലേക്കോ ഒഴുകുന്നു അത് സോഴ്സിൽ നിന്നോ കാഥോഡിൽ നിന്നോ പുറത്തുവരുന്നു എന്നാണ് അതിനാൽ ഇത് ഞാൻ അഞ്ഞൂറ് ഓം ആയി കണക്കാക്കുകയും അഞ്ച് മില്ലിയാമ്പിയറുകൾ അഞ്ഞൂറ് ഓമുകളിലൂടെ കടന്നുപോകുകയാണെങ്കിൽ സോഴ്സ് 2 5 വോൾട്ട് ആണെന്ന് പറയുകയും ചെയ്യും നിങ്ങൾക്ക് ഈ ഘടന തിരിച്ചറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ചർച്ച ചെയ്ത സർക്യൂട്ടുകളിൽ ഒന്നാണിത് ഇത് തീർച്ചയായും നിങ്ങൾക്ക് സർക്യൂട്ട് ആണ് ഡ്രെയിനിൽ ബയസ് റെസിസ്റ്റർ ഉണ്ട് ഇത് ഇതിന് സമാനമാണ് സോഴ്സ് ടെർമിനലിൽ കറന്റ് സോഴ്സ് ബയസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ കറന്റ് സോഴ്സ് നടപ്പിലാക്കാൻ പ്രയാസമുള്ളതിനാൽ ഒരു റെസിസ്റ്റർ പകരം വയ്ക്കുക അതിനാൽ ട്രാൻസിസ്റ്ററിന്റെ സോഴ്സിൽ കറന്റ് സോഴ്സിനായി നിലകൊള്ളുന്ന സോഴ്സിൽ ഒരു ചെറുത്തുനിൽപ്പുള്ള കോമൺ സോഴ്സ് ആംപ്ലിഫയറാണ് ഇത് അതിനാൽ ഈ സോഴ്സ് ഫീഡ്ബാക്ക് ബയസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് സോഴ്സ് ടെർമിനലിൽ നിന്ന് ഗ്രൌണ്ടിലേക്ക് ഒരു വലിയ കപ്പാസിറ്റർ അല്ലെങ്കിൽ കാഥോഡ് ഗ്രൌണ്ടിലേക്ക് ഉള്ളതായി നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ കോമൺ സോഴ്സ് ആംപ്ലിഫയറിനായി നമ്മൾ ഇത് തന്നെയാണ് ചെയ്തത് ഞാൻ ഈ ആംപ്ലിഫയറിലൂടെ കടന്നുപോകാനുള്ള കാരണം നിങ്ങൾ ഈ പ്രത്യേക ആംപ്ലിഫയർ കാണാനിടയില്ല എന്നതാണ് ചില ഓഡിയോ പ്രേമികൾ ഇപ്പോഴും അവ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത് കാലഹരണപ്പെട്ടു പോകുമായിരുന്നു എന്നാൽ നിങ്ങൾ ഇതുപോലുള്ള സർക്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റ് ഉപകരണത്തിൽ നിന്നോ ആകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റ് ഉപകരണം നൽകിയിട്ടുണ്ടെങ്കിൽ ആംപ്ലിഫയർ രൂപകൽപ്പന ചെയ്യുന്നതിന് സമാന തത്ത്വങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾക്ക് ഔട്ട്പുട്ട് വശവും കാണാം ഔട്ട്പുട്ട് എടുക്കാൻ നമ്മൾക്ക് എസി കപ്ലിംഗ് ഉണ്ട് ഇത് C2 ആണ് ഇത് നാനോ ഫാരഡ് ഉള്ള ഉപകരണമാണ് ഞങ്ങൾ ഇത് ഇതുപോലെ ബയസ് ചെയ്യുമ്പോൾ ഒരു വോൾട്ടേജ് ഡിവൈഡർ ഉപയോഗിച്ച് ഗേറ്റ് MOSFET ബയസ് ചെയ്യുന്നു ഇത് സിഗ്നലുകൾക്ക് മാത്രം പ്രസക്തമായ കപ്പാസിറ്ററാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ക്വിസന്റ് അവസ്ഥയിൽ വാക്വം ട്യൂബിന്റെ ഗേറ്റ് അല്ലെങ്കിൽ വാക്വം ട്യൂബിന്റെ ഗ്രിഡ് പൂജ്യവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഇത് പൂജ്യവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക പക്ഷേ സോഴ്സ് അല്ലെങ്കിൽ കാഥോഡ് രണ്ട് പോയിന്റ അഞ്ച് വോൾട്ട് ആണ് അതിനാൽ ഇത് 2 5 വോൾട്ടുകളുടെ ക്വിസന്റ് VGS ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് അത് ശരിയാണ് ഒരു MOS ട്രാൻസിസ്റ്ററിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആവശ്യമാണ് അതേസമയം ഒരു വാക്വം ട്യൂബിന്റെ കാര്യത്തിൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആവശ്യമാണ് അതിനാൽ ഇത് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഗ്രിഡ് ടെർമിനലിലേക്ക് കണക്റ്റു ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ഡിവൈഡർ എന്ന് നമ്മൾ പറയുന്നില്ല ഗ്രൌണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന റെസിസ്റ്റർ മാത്രമാണ് നിങ്ങൾ കാണുന്നത് കപ്പാസിറ്റർ C1 ഉപയോഗിച്ച് നിങ്ങൾ സിഗ്നൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ റെസിസ്റ്റർ വേരിയബിൾ ആണ് ഇത് ഒരു ഓഡിയോ ആപ്ലിക്കേഷനാണെന്ന് ഞാൻ ഊഹിക്കുന്നു ഈ വേരിയബിൾ റെസിസ്റ്റർ ഒരു വോളിയം നിയന്ത്രണത്തിനും ഗെയിൻ കണ്ട്രോളിനും വേണ്ടി പ്രവർത്തിക്കുന്നു തീർച്ചയായും ഈ വിതരണ വോൾട്ടേജ് നമ്മൾ ഉപയോഗിച്ചിരുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ഇത് ഒരു ഇരുപത് വോൾട്ട് ആണ് അതിനാൽ അടിസ്ഥാനപരമായി ഇത് ഒന്നുമല്ല സോഴ്സ് ഫീഡ്ബാക്ക് ബയസ് ഉള്ള ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയറും സോഴ്സ് ടെർമിനലിലെ കറന്റ് സോഴ്സ് ഒരു റെസിസ്റ്റർ ഉപയോഗിച്ച് മാറ്റിയതും ആണ് അതിനാൽ ഇതും MOS ആംപ്ലിഫയറും തമ്മിലുള്ള വ്യത്യാസം ഓപ്പറേറ്റിംഗ് പോയിന്റാണ് വാക്വം ട്യൂബുകൾക്കായി പതിനായിരം വോൾട്ടുകളിൽ ഞങ്ങൾക്ക് നെഗറ്റീവ് VGS ഉം VDS ഉം ആവശ്യമാണ് അതേസമയം ഞങ്ങളുടെ സർക്യൂട്ടുകളിൽ ഞങ്ങൾക്ക് കുറച്ച് വോൾട്ട് VGS ഉം കുറച്ച് വോൾട്ട് VDS ഉം മാത്രം മതി അതിനാൽ നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ തുറന്നുകാട്ടുന്ന പാഠമാണിത് നിങ്ങൾക്ക് വാസ്തവത്തിൽ ഇൻറർനെറ്റിലേക്ക് പോയി മറ്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആംപ്ലിഫയറിനായി നോക്കാൻ കഴിയും ക്ലാസിലെ ആ പ്രത്യേക ഉപകരണത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽപ്പോലും കോമൺ സോഴ്സ് ആംപ്ലിഫയറുകളുമായി പൊരുത്തപ്പെടുന്നിടത്തോളം നിങ്ങൾക്ക് ആംപ്ലിഫയർ ടോപ്പോളജികൾ മനസിലാക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റ് തരം ആംപ്ലിഫയറുകളും ചർച്ചചെയ്യുന്നു